ഹലോ സെക്യുർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം മുമ്പത്തെ വീഡിയോ ക്ലാസ്സിൽ ഞങ്ങൾ Meltdown നെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ചും spectre നെക്കുറിച്ചും കണ്ടു Variant2 എന്നറിയപ്പെടുന്ന സ്പെക്ടറിന്റെ മറ്റൊരു വകഭേദം കൂടിയുണ്ട് ഈ വീഡിയോയിൽ സ്പെക്ടറിന്റെ ഈ രണ്ടാമത്തെ വേരിയന്റ് നോക്കാം നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഈ വേരിയൻറ് ആധുനിക പ്രോസസ്സറുകളിൽ നിലവിലുള്ള speculative execution അടിസ്ഥാനമാക്കിയുള്ളതാണ് മാത്രമല്ല ഇത് മറ്റൊരു പ്രക്രിയയിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ clean ചെയ്യുന്നതിനും ഈ speculative execution ഉപയോഗപ്പെടുത്തുന്നു വേരിയൻറ് 2 ലെ സജ്ജീകരണം ഇനിപ്പറയുന്നതാണ് നമുക്ക് victim ന്റെ address space ഉണ്ട് അതിനാൽ ഇത് victim പ്രോസസ്ന്റെ address space ൽ ആണ് കൂടാതെ ഈ പ്രോസസ് സ്പേസിനുള്ളിൽ രഹസ്യ ഡാറ്റകളുള്ള ചില ഭാഗങ്ങളുണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ആക്രമണകാരികൾ സ്പെക്ടർ ആക്രമണം ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ ഈ രഹസ്യ ഡാറ്റ നേടാൻ ആഗ്രഹിക്കുന്നു ആദ്യം ചെയ്യുന്നത് ആക്രമണകാരി 2 പ്രദേശങ്ങളെ തിരിച്ചറിയും എന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ 1 ന് ഒരു രജിസ്റ്റർ മൂല്യത്തെ അടിസ്ഥാനമാക്കി ഒരു indirect jump ഉണ്ട് victim ന്റെ user address space ൽ നിലവിലുള്ള ചില നിർദ്ദിഷ്ട സ്പെക്ടർ ഗാഡ്ജെറ്റുകളിലേക്കാണ് ഈ ജമ്പ് രഹസ്യ വിവരങ്ങളുടെ ഉള്ളടക്കങ്ങൾ ഒരു രജിസ്റ്ററിലേക്ക് load ചെയ്യുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ ഈ ഗാഡ്ജെറ്റിൽ അടങ്ങിയിരിക്കുന്നു ആക്രമണകാരി ഒരിക്കൽ ഈ ഗാഡ്ജെറ്റിലേക്ക് ഈ indirect ജമ്പ് ഉപയോഗിക്കുകയും ഈ ഗാഡ്ജെറ്റിന് xor and പോലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കൂടാതെ ഒരു രജിസ്റ്ററിൽ രഹസ്യ ഡാറ്റ ഉൾക്കൊള്ളുന്ന ഒരു ലോഡ് ഇൻസ്ട്രക്ഷനും ഉണ്ട് ഒരു സ്പെക്ടർ വേരിയൻറ് 2 ആക്രമണം mount ചെയ്യുന്നതിന് ആക്രമണകാരി ചെയ്യുന്നത് ഒരു user space ൽ സ്വന്തം ആക്രമണ പരിപാടി സൃഷ്ടിക്കുന്നു എന്നതാണ് ആക്രമണകാരി ആദ്യം ഇവിടെ ഒരു indirect jump ഉള്ള ഒരു നിർദ്ദേശം സൃഷ്ടിക്കും ഈ വിലാസമോ ഈ പ്രത്യേക സ്ഥലത്തിന്റെ വിലാസമോ victim ന്റെ address ൽ നിലവിലുള്ള indirect jump നു സമാനമാണെന്ന് ശ്രദ്ധിക്കുക ആക്രമണകാരിക്ക് ചില ഗാഡ്ജെറ്റിന്റെ വിലാസം അറിയാമെന്നും സ്വന്തം വിലാസത്തിൽ ഈ പ്രദേശം ഒരു റിട്ടേൺ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുമെന്നും നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ attacker ചെയ്യുന്നത് ഈ victim പ്രക്രിയ നടപ്പിലാക്കുന്ന അതേ പ്രോസസ്സറിൽ തന്നെ ആക്രമണകാരി ഈ ആക്രമണ പരിപാടി പ്രവർത്തിപ്പിക്കും എന്നതാണ് അതിനാൽ ഇവിടെ സംഭവിക്കുന്നത് ആക്രമണകാരി ഈ indirect jump ഉപയോഗിച്ചു ഈ മെമ്മറി മേഖലയിലേക്ക് ആവർത്തിച്ച് jump ചെയ്യുകയും അത് ഒരു ലൂപ്പിൽ തുടരുകയും ചെയ്യും ആന്തരികമായി സംഭവിക്കുന്നത് ഈ indirect jump നെ പിന്തുടരുന്ന അടുത്ത നിർദ്ദേശം ഒരു റിട്ടേൺ നിർദ്ദേശമാണെന്ന് ആക്രമണകാരികൾ ബ്രാഞ്ച് predictor നെ പരിശീലിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ മുമ്പ് കണ്ടതുപോലുള്ള ബ്രാഞ്ച് predictor അതിന്റെ അറിവിനെ അടിസ്ഥാനമാക്കി ഈ പ്രദേശത്ത് നിന്ന് ഡാറ്റ ലഭ്യമാക്കാൻ ആരംഭിക്കുകയും ഈ പ്രദേശത്തെ നിർദ്ദേശങ്ങൾ speculative ആയി നടപ്പിലാക്കാനും കഴിയും ഈ പ്രോസസ്സറിലെ vulnerability എന്തെന്നാൽ ബ്രാഞ്ച് predictor ഒരു address space ൽ virtual address മാത്രമേ നോക്കുന്നുള്ളൂ മാത്രമല്ല ഒരു പ്രക്രിയയുടെ virtual address മറ്റ് പ്രക്രിയയിൽ നിന്ന് വേർതിരിക്കാനും കഴിയില്ല Victim ന്റെ ഈ ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബ്രാഞ്ച് predictor അതിന്റെ ബ്രാഞ്ച് ടാർഗെറ്റ് ബഫർ പരിശോധിക്കുകയും എക്സിക്യൂട്ട് ചെയ്യേണ്ട അടുത്ത വിലാസം കണ്ടെത്തുകയും അത് speculative ആയി നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്യും Victim ന്റെ address space ൽ നിലവിലുള്ള ഈ ഗാഡ്ജെറ്റിന് യഥാർത്ഥത്തിൽ AND XOR അല്ലെങ്കിൽ ഒരു ലോഡ് ഓപ്പറേഷൻ പോലുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് ഓർമ്മിക്കുക അത് Victim ന്റെ address space ൽ നിന്ന് രഹസ്യ ഡാറ്റ ഒരു രജിസ്റ്ററിലേക്ക് speculative ആയി load ചെയ്യാവുന്നതേയുള്ളൂ ഈ പ്രക്രിയയ്ക്കിടെ മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ കണ്ടതുപോലെ secret ഡാറ്റയുടെ ഉള്ളടക്കങ്ങൾ കാഷെയിൽ ഉണ്ടാകും അത് കാഷെ state നെ modify ചെയ്യും അതിനാൽ കാഷെ ഹിറ്റ് കാഷെ മിസ് എന്നിവയ്ക്ക് ആവശ്യമായ സമയം പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിയും അതായത് secret ഡാറ്റ എന്താണെന്ന് തിരിച്ചറിയാൻ കാഷെ ഹിറ്റ് കാഷെ മിസ് എന്നിവയ്ക്ക് ആവശ്യമായ സമയം ഉപയോഗിക്കാം അങ്ങനെ വേരിയൻറ് 2 ൽ ആക്രമണകാരിക്ക് ഒരു isolated പ്രക്രിയ ഉപയോഗിച്ച് ഒരു indirect jump സ്വന്തം address space ൽ സൃഷ്ടിക്കാനും പ്രോസസ്സറിലെ ബ്രാഞ്ച് predictor clean ചെയ്യാനും speculative ആയി execute ചെയ്യാനും കഴിയും എന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ ഈ speculation secret ഡാറ്റ ഒരു രജിസ്റ്ററിലേക്ക് ലോഡുചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനാൽ victim process ന്റെ address space നെക്കുറിച്ചുള്ള ഉള്ളടക്കങ്ങൾ വീണ്ടെടുക്കാൻ ഇത് ഉപയോഗിക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ Meltdown നും Spectre നുമായി നിരവധി വ്യത്യസ്ത countermeasures വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ address space പുനസംഘടിപ്പിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് Meltdown തടയുന്നതിനുള്ള ഒരു പ്രധാന മാർഗം 2018 ന് മുമ്പു user space ഉം Kernal space ഉം ഈ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചു ഒരു പ്രക്രിയയുടെ വിർച്വൽ address space നെ രണ്ട് മേഖലകളായി വിഭജിക്കാം ഒന്ന് ഒരു നിശ്ചിത മെമ്മറി സ്ഥാനം വരെയുള്ള user space ഉം അതിനപ്പുറം കേർണൽ സ്പെയ്സും ഉദാഹരണത്തിനു 32 ബിറ്റ് ലിനക്സ് സിസ്റ്റത്തിൽ ഈ അതിർത്തി 0xC0000000 എന്ന സ്ഥാനത്തായിരുന്നു ഈ സ്ഥാനത്തിന് താഴെ user space ഉം ഈ സ്ഥാനത്തിന് മുകളിൽ കേർണൽ സ്പെയ്സും ആയിരുന്നു കേർണൽ സ്പെയ്സിലെ ഉള്ളടക്കങ്ങൾ വായിക്കുന്നതിന് പ്രോസസ്സറിന്റെ speculative സ്വഭാവം ഉപയോഗപ്പെടുത്താൻ ഒരു user സ്പേസ് പ്രോഗ്രാമിനു കഴിയും എന്നുള്ളതുകൊണ്ട് meltdown ആക്രമണം ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഇതിനുള്ള പ്രതിപ്രവർത്തനങ്ങൾ KPTI അല്ലെങ്കിൽ Kernal Page Table Isolation എന്നറിയപ്പെടുന്നു വാസ്തവത്തിൽ രണ്ട് സെറ്റ് പേജ് ടേബിളുകളുണ്ട് ഒന്ന് user മോഡിൽ മറ്റൊന്ന് കേർണൽ മോഡിൽ User മോഡിൽ നിന്ന് കേർണൽ കോഡിലേക്ക് മുഴുവനായി map ചെയ്യുന്ന page tables നിലവിലില്ല കേർണൽ space നായി ഒരു ചെറിയ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ User സ്പേസ് പ്രോഗ്രാം ഒരു സിസ്റ്റം കോൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം അത് ആദ്യം ഈ കേർണൽ സ്പെയ്സിലേക്ക് വരികയും അത് കൂടുതൽ കേർണൽ മോഡിലേക്ക് മാറുകയും മുഴുവൻ കേർണൽ സ്ഥലവും ഈ പ്രദേശത്തേക്ക് മാപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ സിസ്റ്റം കോളിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ വിർച്വൽ സ്പേസ് user മോഡിലേക്ക് മടങ്ങും ഒരു meltdown ആക്രമണം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് user space ൽ നിന്ന് ചെയ്യേണ്ടതുണ്ട് കാരണം കേർണൽ സ്പേസ് മെമ്മറി ഈ പ്രത്യേക മോഡിൽ മാപ്പ് ചെയ്തിട്ടില്ലാത്തതിനാൽ അതിനു ഒന്നും read ചെയ്യാൻ കഴിയില്ല Spectre first variant നായി നിർദ്ദേശിച്ച സാങ്കേതിക വിദ്യകൾ compiler patch കളായിരുന്നു ഇത് speculation തടയാൻ LFENCE നിർദ്ദേശം പോലുള്ള തടസ്സങ്ങൾ ഉപയോഗിക്കുന്നു എക്സിക്യൂഷൻ sequentialize ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന LFENCE നിർദ്ദേശത്തെ X86 പ്രോസസ്സറുകളാണ് പിന്തുണയ്ക്കുന്നത് LFENCE അതിനു അപ്പുറമുള്ള നിർദ്ദേശങ്ങളെ speculation ഉണ്ടാവാതെ തടയും വേരിയൻറ് 2 തടയുന്നതിന് ബ്രാഞ്ച് പ്രെഡിക്ടർ യൂണിറ്റിൽ വ്യത്യസ്ത ബ്രാഞ്ച് ടാർഗെറ്റ് ബഫറുകൾBranch Target BufferBTB ഉണ്ടായിരിക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ വച്ചു ഓരോ ബ്രാഞ്ച് ടാർഗെറ്റ് ബഫറും ഒരൊറ്റ process നു വേണ്ടി ഉള്ളതാണ് ഉദാഹരണത്തിന് ഹൈപ്പർ ത്രെഡ് പിന്തുണയുള്ള ഒരേസമയം multithreading SMT ഉള്ള ഒരു പ്രോസസർ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽഅതിനു രണ്ട് വ്യത്യസ്ത BTB ഉണ്ടാകും Spectre variant2 പ്രവർത്തിക്കില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം ഓരോ പ്രോസസ്സും അല്ലെങ്കിൽ ഒരേസമയം പ്രവർത്തിക്കുന്ന ഓരോ ത്രെഡും സ്വന്തം BTB ഉപയോഗിക്കും അതിനാൽ ഒരു ത്രെഡിലെ ഒരു പ്രവചനം മറ്റൊരു ത്രെഡിലെ speculation നെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കില്ല